അവസാന വീഡിയോയിൽ ഇന്റഗ്രൽ ഡൊമെയ്നിലെ ഇറെഡ്യൂസിബിൾ ഘടകങ്ങൾ പ്രൈം എലെമെന്റ്സ് എന്നീ ആശയങ്ങൾ ഞാൻ നിർവചിച്ചുഇനി നമ്മൾ വിവിധ ഉദാഹരണങ്ങൾ നോക്കുകയാണ് എന്താണ്ഇറെഡ്യൂസിബിൾ എലെമെന്റ്സ് എന്താണ് പ്രൈം എലെമെന്റ്സ് നമുക്ക് ഓർമ്മിക്കാം അതിനാൽ ഞാൻ പുതിയ മെറ്റീരിയൽ ആരംഭിക്കുന്നതിന് മുമ്പ് ഇതാണ് നമ്മൾ കണ്ട നിർവചനം അതിനാൽഇറെഡ്യൂസിബിൾ എലെമെന്റ്സ് അത് ഒരു യൂണിറ്റല്ല അതിന് പ്രോപ്പർ ഡിവൈസർ ഇല്ല ഡിവൈസറുകളുടെ സങ്കൽപ്പത്തെക്കുറിച്ച് നമ്മൾ സംസാരിച്ചു അതുപോലെ തന്നെ പൂർണ്ണസംഖ്യകളിൽ ഉള്ള ഡിവൈസറുകളെപോലെ ഡിവൈസർ എന്ന സങ്കൽപ്പമുണ്ട് പൂർണ്ണസംഖ്യകളിലെ പ്രോപ്പർ ഡിവൈസറിനോട് സാമ്യമുള്ള ഒന്നാണ് പ്രോപ്പർ ഡിവൈസർ ഉദാഹരണത്തിന് നമ്പർ 10 ന് 1 ഉം 10 ഉം ഡിവൈസറുകൾ ഉണ്ട് പക്ഷേ അവ പ്രോപ്പർ ഡിവൈസർ ആയി കണക്കാക്കില്ല അതിനാൽ 10 ന്റെ പ്രോപ്പർ ഡിവൈസർ 2 ഉം 5 ഉം ആണ് ആർബിട്രറി ഇന്റഗ്രൽ ഡൊമെയ്നിലെ ഒരു ഘടകം പ്രോപ്പർ ഡിവൈസർ ഇല്ലാത്ത ഒരു ഘടകമാണ് മറുവശത്ത് പ്രൈം എലമെന്റ് എന്നാൽ അത് രണ്ട് എലെമെൻന്റ്സിന്റെ പ്രൊഡക്ടിനെ വിഭജിക്കുമ്പോൾഅതോടൊപ്പംതന്നെ അവയിലൊന്നിനെയും വിഭജിക്കണം പൂർണ്ണസംഖ്യകളുടെ കാര്യത്തിൽ അവ രണ്ടും സമ്മതിക്കുന്നു ഇത് ഹൈസ്കൂൾ ഗണിതശാസ്ത്രം ഉപയോഗിച്ച് പരിശോധിക്കുന്നത് പ്രയാസകരമല്ല അത് പിന്നീട് തെളിയിക്കുന്ന നമ്മുടെ പൊതു ഫലങ്ങളിൽ ഇത് കാണാം ഞാൻ ചെയ്ത അവസാന വീഡിയോ പകുതി വഴിയിൽ ചെയ്തുകൊണ്ടിരുന്ന ഉദാഹരണത്തിന്റെ പകുതി വഴി അവസാനിപ്പിച്ചു ഒരു റിംഗിലെ ഒരു ഇറെഡ്യൂസിബിൾ ആയ എന്നാൽ പ്രൈം അല്ലാത്ത ഒരു എലെമെൻന്റിന്റെ ഒരു ഉദാഹരണം നൽകാൻ നമ്മൾ ശ്രമിക്കുന്നു അതിനാൽ R റിംഗിനെ നമ്മൾ പരിഗണിച്ചു അത് Z അഡ്ജോയിന്റ് സ്ക്വയർ റൂട്ട് മൈനസ് 5 ആണ് അതിൽ എ പ്ലസ് ബി ഇന്റു സ്ക്വയർ റൂട്ട് മൈനസ് 5 ഇതുപോലുള്ള ഘടകങ്ങൾ ഉൾക്കൊള്ളുന്നു ഇവിടെ a b എന്നിവ പൂർണ്ണസംഖ്യകളാണ് ഇതിൽ നമ്മൾ പ്രൈം അല്ലാത്ത എന്നാൽ ഒരു ഇറെഡ്യൂസിബിൾ ആയ ഘടകത്തിനായി തിരയുന്നു 2 നമ്മൾ ഉദ്ദേശിച്ച കാര്യം ചെയ്യുമെന്ന് ഞാൻ അവകാശപ്പെട്ടു കഴിഞ്ഞ വീഡിയോയുടെ അവസാനത്തോടെ 2 പ്രൈം അല്ലെന്ന് ഞാൻ തെളിയിച്ചു കാരണം 2 1 പ്ലസ് റൂട്ട് മൈനസ് 5 1 മൈനസ് റൂട്ട് മൈനസ് 5 എന്നിവയുടെ പ്രൊഡക്ടിനെ വിഭജിച്ചു അത് 6 ആണ് അല്ലെങ്കിൽ 2 ആ പ്രൊഡക്ടിനെ വിഭജിക്കുന്നു പക്ഷേ 2 അവ രണ്ടിനെയും വിഭജിക്കുന്നില്ലെന്ന് നമ്മൾ വാദിച്ചു ഞാൻ ഇപ്പോൾ ചെയ്യുന്ന രണ്ടാമത്തെ ഭാഗം അതാണ് അതിനാൽ നമുക്ക് ഇപ്പോൾ തുടരാം 2 യഥാർത്ഥത്തിൽ ഇറെഡ്യൂസിബിൾ ആണ് ഞാൻ ഇത് കാണിച്ചുകഴിഞ്ഞാൽ ഈ റിംഗിൽ നമുക്ക് പ്രൈം അല്ലാത്ത എന്നാൽ ഇറെഡ്യൂസിബിൾ ആയ ഒരു എലെമെൻറ് ഉണ്ടെന്ന് നമുക്ക് മനസിലാകും ഇറെഡ്യൂസിബിൾ ആയ ഒരു എലെമെൻന്റിന്റെ നിർവചനം നിങ്ങൾ ഓർക്കുന്നുവെങ്കിൽ അത് ഒരു യൂണിറ്റാകരുത് അതിന് പ്രോപ്പർ ഡിവൈസർ ഉണ്ടാകരുത് അതിനാൽ ഞാൻ വ്യക്തമായി 2 എഴുതുന്നു 2 ഒരു യൂണിറ്റല്ല ഇത് യഥാർത്ഥത്തിൽ വളരെ എളുപ്പമാണ് വിശദാംശങ്ങൾ പരിശോധിക്കുന്നതിനുള്ള ഒരു അഭ്യാസമായി ഞാൻ ഇത് നിങ്ങൾക്കു വിട്ടുതന്നിരിക്കുന്നു എന്നാൽ 2 ഒരു യൂണിറ്റാണെങ്കിൽ ഇത് എന്താണ് അർത്ഥമാക്കുന്നത് ഓർമ്മിക്കുകയൂണിറ്റ് എന്നതിനർത്ഥം ഇതിന് ഒരു ഗുണിത വിപരീതമുണ്ട് നിർവചനം അനുസരിച്ച് 2 ഇന്റു എ പ്ലസ് ബി ഇന്റു റൂട്ട് മൈനസ് 5 1 ന് തുല്യമായിരിക്കും കാരണം 1 എന്നത് ഗുണിത ഐഡന്റിറ്റി ഘടകമാണ് 2 എന്നത് ഒരു യൂണിറ്റ് ആണ്അതായത് 2 ഇന്റു ഇത് 1 ആണ് എന്നാൽ ഇത് സംഭവിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 2 പ്ലസ് 2 ബി കിട്ടും തുടർന്ന് ഒരു വൈരുദ്ധ്യം ലഭിക്കുന്നതിന് നിങ്ങൾ ഇതുപോലെ ചെയ്യുക അതിനാൽ ഇത് നിങ്ങൾക്കുള്ള ഒരു പ്രോബ്ലം ആണ് ഇത് വളരെ ലളിതമാണ് നിങ്ങൾ ചെയ്യുക പ്രോപ്പർ ഡിവൈസർ ഇല്ലെന്ന് ഇപ്പോൾ നാം കാണിക്കേണ്ടതുണ്ട് അതിനാൽ ഒരു ഡിവൈസർ ഉണ്ടെന്ന് കരുതുക കാരണം നമ്മുടെ റിംഗ് R എന്നാൽ Z അഡ്ജോയിന്റ് റൂട്ട് മൈനസ് 5 ആണ് അതിനാൽ ഇത് അർത്ഥമാക്കുന്നത് എലെമെൻറ്സ് ഈ രൂപത്തിലുള്ളതാണ് ഇവിടെ a b എന്നിവ പൂർണ്ണസംഖ്യകളാണ് a 2 ന്റെ ഡിവൈസർ ആണെന്ന് കരുതുക ഇത് 2 ന്റെ ഡിവൈസർ ആണെങ്കിൽ ചില പ്രവൃത്തികൾക്ക് ശേഷം ഈ നിഗമനം ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഇത് വാസ്തവത്തിൽ ഒരു പ്രോപ്പർ ഡിവൈസർ ആണ് അത് എന്തുകൊണ്ടാണ് അതിനാൽ ഒരു അബ്സോല്യൂട്ട് മൂല്യത്തിന്റെ ആശയം ഇപ്പോൾ ഞാൻ നിങ്ങൾക്കായി ഓർമിപിക്കാൻ പോകുന്നു Z എന്നത് ഒരു കോംപ്ലെക്സ് സംഖ്യയാണെന്നു കരുതുക Z എന്നത് എ പ്ലസ് ഐബി ആണെന്ന് നമുക്ക് പറയാം ഇവിടെ a b എന്നിവ റിയൽ സംഖ്യകളാണ് അതിനാൽ ഏത് കോംപ്ലെക്സ് സംഖ്യയെയും എ പ്ലസ് ഐബി എന്ന് എഴുതാം ഇവിടെ a b എന്നിവ റിയൽ സംഖ്യകളും i എന്നാൽ റൂട്ട് ഓഫ് മൈനസ് 1 ആണ് ഇനി ഞാൻ അബ്സോല്യൂട്ട് മൂല്യത്തിന്റെ ഈ ആശയം ഉപയോഗിക്കാൻ പോകുന്നു അത് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ആണ് വാസ്തവത്തിൽ ഇത് ഇതിന്റെ സ്ക്വയർ റൂട്ട് ആയിരിക്കാം പക്ഷെ ഞാൻ ഇത് ഉപയോഗിക്കാൻ പോകുന്നു z ന്റെ അബ്സോല്യൂട്ട് മൂല്യം എ സ്ക്വയേർഡ് പ്ലസ് ബി സ്ക്വയറാണ് ഇപ്പോൾ എ പ്ലസ് ബി ഇന്റു സ്ക്വയർ റൂട്ട് മൈനസ് 5 എന്നത് 2 ന്റെ ഡിവൈസർ ആണെങ്കിൽ അതിനർത്ഥം ആർബിട്രറി റിങ്ങിലെ ഒരു ഡിവൈസറിന്റെ നിർവചനം അനുസരിച്ചു 2 ഈക്വൽ ടു എ പ്ലസ് ബി ടൈംസ് റൂട്ട് മൈനസ് 5 ഇന്റു റിംഗിലെ മറ്റേതെങ്കിലും ഘടകം എന്ന് എഴുതാം അതിനാൽ എനിക്ക് ഇത് ആവശ്യമില്ല അതിനാൽ ഞാൻ ഇത് x എന്ന് എഴുതട്ടെ ഒരു ഡിവൈസറിന്റെ നിർവചനം അനുസരിച്ച് എനിക്ക് ഇത് ഉണ്ട് ഈ റിംഗിൽ നമ്മൾ പരിഗണിക്കുന്ന എല്ലാ അക്കങ്ങളും കോംപ്ലക്സ് സംഖ്യകളാണെന്ന് ഓർമ്മിക്കുക തീർച്ചയായും R കോംപ്ലെക്സ് സംഖ്യകളിൽ അടങ്ങിയിരിക്കുന്നു അതിനാൽ നമുക്ക് ഇരുവശത്തും അബ്സോല്യൂട്ട് മൂല്യം എടുക്കാം ഇരുവശത്തും നമുക്ക് 2 ന്റെ അബ്സോലുട്ട് മൂല്യം എ പ്ലസ് ബി ഇന്റു സ്ക്വയർ റൂട്ട് മൈനസ് 5 ഇന്റു അബ്സോല്യൂട്ട് വാല്യൂ ഓഫ് x എന്ന് കിട്ടും ഇത് അബ്സോല്യൂട്ട് മൂല്യത്തിന്റെ നിർവചനമാണ് ഇതിന്റെ അർത്ഥമെന്താണ് 2 ന്റെ അബ്സോല്യൂട്ട് മൂല്യം എന്താണ് ഇത് യഥാർത്ഥത്തിൽ 2 സ്ക്വയറാണ് അത് 4 ആണ് കൂടാതെ എ പ്ലസ് ബി ഇന്റു സ്ക്വയർ റൂട്ട് മൈനസ് 5 ന്റെ അബ്സോല്യൂട്ട് മൂല്യം എന്താണ് ഞാൻ ഇത് ഇവിടെ എഴുതാം എ പ്ലസ് ബി ഇന്റു സ്ക്വയർ റൂട്ട് മൈനസ് 5 നമുക്ക് ഇതിനെ എ പ്ലസ് ഐബി പോലുള്ള രൂപത്തിലേക്ക് മാറ്റി ചെയ്യാം അതിനാൽ ഇത് എ പ്ലസ് സ്ക്വയർ റൂട്ട് ബി ഇന്റു i ആയി എഴുതാം ഇത് ഒരു കോംപ്ലെക്സ് സംഖ്യയാണ് ഇവിടെ റിയൽ പാർട്ട് എ ആണ്ഇമാജിനറി ഭാഗം സ്ക്വയർ റൂട്ട് b ആണ് അതിനാൽ അബ്സോല്യൂട്ട് മൂല്യം എ പ്ലസ് സ്ക്വയർ റൂട്ട് ബി ഐ യുടെ അബ്സോല്യൂട്ട് മൂല്യമാണ് അത് ഒഎ സ്ക്വയർ പ്ലസ് 5 ബി സ്ക്വയർ ആണ് ഇത് യഥാർത്ഥത്തിൽ എ പ്ലസ് ഐബി ഇന്റു എ മൈനസ് ഐബി ആണ് അതാണ് നമുക്കുള്ളത് അതിനാൽ 2 സ്ക്വയർ 4 ആണ് ഇവ 2 തുല്യ കോംപ്ലെക്സ് സംഖ്യകളാണ് അതായത് അബ്സോല്യൂട്ട് മൂല്യങ്ങൾ തുല്യമാണ് അതിനാൽ നമുക്ക് x ന്റെ എ സ്ക്വയർ പ്ലസ് 5 ബി സ്ക്വയർ ഇന്റു അബ്സോല്യൂട്ട് വാല്യൂ ഓഫ് x ആണ് X ന്റെ അബ്സോല്യൂട്ട് മൂല്യം എന്താണെന്ന് എനിക്കറിയില്ല എന്നാൽ x ന്റെ അബ്സോല്യൂട്ട് മൂല്യം വാസ്തവത്തിൽ ഒരു പൂർണ്ണസംഖ്യയായിരിക്കുമെന്ന് ഓർക്കുക നെഗറ്റീവ് അല്ലാത്ത ഒരു സംഖ്യ അതായത് പോസിറ്റീവ് സംഖ്യ X a എന്ന രൂപത്തിലാണ് അത് c പ്ലസ് സ്ക്വയർ റൂട്ട് 5s b i രൂപത്തിലായിരിക്കും അതിനാൽ നിങ്ങൾ അബ്സോല്യൂട്ട് മൂല്യം എടുക്കുകയാണെങ്കിൽ അത് എസി സ്ക്വയർ പ്ലസ് 5 ബി സ്ക്വയർ ആയിരിക്കും അതിനാൽ x ഒരു പോസിറ്റീവ് സംഖ്യയായിരിക്കുന്നിടത്തോളം കാലം അല്ലെങ്കിൽ പൂജ്യം അല്ലാത്ത സംഖ്യ ആയാൽ ഇത് ഒരു പോസിറ്റീവ് റിയൽ സംഖ്യയായിരിക്കും ഇതിനർത്ഥം എ സ്ക്വയർ പ്ലസ് 5 ബി സ്ക്വയർ ഡിവൈഡ്സ് 4 ഇതിനർത്ഥം നമ്മൾ പൂർണ്ണസംഖ്യകളുടെ ഒരു മേഖലയിൽ ആണ് നിങ്ങൾക്ക് ഒരു പൂർണ്ണസംഖ്യയുണ്ട്എ സ്ക്വയർ പ്ലസ് 5 ബി സ്ക്വയർ അത് 4 നെ വിഭജിക്കുന്നു അതായത് എ സ്ക്വയേർഡ് പ്ലസ് 5 ബി സ്ക്വയർ 1 ആയിരിക്കണം അല്ലെങ്കിൽ എ സ്ക്വയേർഡ് പ്ലസ് ബി സ്ക്വയർ 2 ആയിരിക്കണം അല്ലെങ്കിൽ എ സ്ക്വയേർഡ് പ്ലസ് 5 ബി സ്ക്വയർ 4 ആയിരിക്കണം എ സ്ക്വയർ പ്ലസ് 5 ബി സ്ക്വയർ ഒരു പോസിറ്റീവ് സംഖ്യയാണ് കാരണം എ പ്ലസ് i a b എന്നിവ പോസിറ്റീവ് സംഖ്യകളാണ് a b പൂജ്യം അല്ലാത്ത പൂർണ്ണസംഖ്യകളാണ് അതിനാൽ എ സ്ക്വയറും ബി സ്ക്വയറും യഥാർത്ഥത്തിൽ പോസിറ്റീവ് സംഖ്യകളാണ് എ സ്ക്വയേർഡ് പ്ലസ് 5 ബി സ്ക്വയർ 4 നെ വിഭജിക്കുന്ന ഒരു പോസിറ്റീവ് സംഖ്യയായിരിക്കണം ഇപ്പോൾ തീർച്ചയായും ഇത് സൂചിപ്പിക്കുന്നത് b ക്ക് ഒരു സാധ്യത മാത്രമേ ഉള്ളൂ കാരണം b 0 ആയിരിക്കണം കാരണം b പോസിറ്റീവ് ആണെങ്കിലും ബി നെഗറ്റീവ് ആണെങ്കിലും ബി സ്ക്വയർ പോസിറ്റീവ് ആയിരിക്കും 5 ബി സ്ക്വയർ കുറഞ്ഞത് 5 ആയിരിക്കും എന്നാൽ എ സ്ക്വയർ പ്ലസ് 5 ബി സ്ക്വയർ 1 2 അല്ലെങ്കിൽ 4 ആണ് അതിനാൽ ബി 0 ആയിരിക്കണം ഉടനെ നിങ്ങൾ എ സ്ക്വയർ 4 ആയിരിക്കണമെന്ന് നിങ്ങൾ കാണുന്നു എ സ്ക്വയർ 1 അല്ലെങ്കിൽ 2 അല്ലെങ്കിൽ 4 ആകാം എന്നാൽ അത് 2 ആകാൻ പാടില്ല അതിനാൽ ഇത് 1 അല്ലെങ്കിൽ 2 ആയിരിക്കണം അതിനാൽ a 1 അല്ലെങ്കിൽ 2 ആണ് അതിനർത്ഥം അത് തീർച്ചയായും പ്ലസ് മൈനസ് 1 മൈനസ് 2 ആകാം പക്ഷേ നമ്മൾ ആരംഭിച്ച ഡിവൈസർ അല്ലെങ്കിൽ ആർബിട്രേറി ഡിവൈസർ എ പ്ലസ് ബി ഇന്റു സ്ക്വയർ റൂട്ട് മൈനസ് 5 എന്നത് ഒന്നുകിൽ പ്ലസ് 1 പ്ലസ് മൈനസ് 1 അല്ലെങ്കിൽ പ്ലസ് മൈനസ് 2 ആണ് അതിനാൽ എ പ്ലസ് സ്ക്വയർ റൂട്ട് ബി ഇന്റു സ്ക്വയർ റൂട്ട് മൈനസ് 5 ഒരു പ്രോപ്പർ ഡിവൈസർ അല്ലെന്ന് നമ്മൾ നിഗമനം ചെയ്യുന്നു അതിനാൽ ഇത് ഒന്നുകിൽ 1 പ്ലസ് മൈനസ് 1 അല്ലെങ്കിൽ പ്ലസ് മൈനസ് 2 ആണ് അതിനാൽ ഇത് 2 ന്റെ പ്രോപ്പർ ഡിവൈസർ അല്ലകാരണം പ്രോപ്പർ ഡിവൈസർ ഒരു യൂണിറ്റ് ആയിരിക്കില്ല അതോടൊപ്പം അസോസിയേറ്റ് അല്ലാത്തതുമായ ഒന്നായിരിക്കണം 1 മൈനസ് 1 എന്നിവ യൂണിറ്റുകളാണ് കൂടാതെ 2 ഉം പ്ലസ് ഓർ മൈനസ് 2 ഉം 2 ന്റെ അസോസിയേറ്റുകളാണ് അതിനാൽ 2 ന് പ്രോപ്പർ ഡിവൈസർ ഇല്ല 2 ഒരു യൂണിറ്റല്ല അതിനാൽ 2 എന്നത് ഇറെഡ്യൂസിബിൾ ആണ് എന്നാൽ 2 പ്രൈം അല്ല ഈ ഉദാഹരണം ഞാൻ ചെയ്തത് പൊതുവെ ഇറെഡ്യൂസിബിൾ ഘടകങ്ങൾ പ്രൈം അല്ല എന്ന വസ്തുത വ്യക്തമാക്കുന്നതിന് മാത്രമാണ് അതിനാൽ അതാണ് എന്റെ ലക്ഷ്യം പൊതുവേ ഇറെഡ്യൂസിബിൾ ഘടകങ്ങൾ പ്രൈം അല്ല അതിനാൽ ഇത് ഓർത്തിരിക്കേണ്ട ഒരു പ്രധാന വസ്തുതയാണ് ഒരു ഇന്റഗ്രൽ ഡൊമെയ്നിൽ പ്രൈം അല്ലാത്ത ഇറെഡ്യൂസിബിൾ ഘടകങ്ങൾ ഉണ്ടാകാം എന്നിരുന്നാലും ഇതിന്റെ കോൺവേഴ്സ് ശരിയാണ് അതിനാൽ ഇത് ഒരു പ്രൊപോസിഷൻ ആണ് ഞാൻ ഇത് തെളിയിക്കട്ടെ R ഒരു ഇന്റഗ്രൽ ഡൊമെയ്നായിരിക്കട്ടെ എ R ലെ ഒരു പ്രൈം എലെമെന്റ് ആയിരിക്കട്ടെ a എന്നത് ഇറെഡ്യൂസിബിൾ ആണ് ശരി അതിനാൽ അവസാന വീഡിയോയിൽ ഞാൻ നൽകിയ നിർവചനം നിങ്ങൾ ഓർക്കുന്നുവെങ്കിൽ ഒരു പ്രൈം എലമെന്റ് ഒരു യൂണിറ്റല്ല അത് ഒരു പ്രോഡക്റ്റ് ബിസിയെ വിഭജിച്ചാൽ അവയിലൊന്നിനെയും വിഭജിക്കുന്നു അതിനാൽ ഇത് ഒരു യൂണിറ്റല്ല അതിനാൽ ഇപ്പോൾ അത് ഇറെഡ്യൂസിബിൾ ആണെന്ന് കാണിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു അത് കാണിക്കാൻ നമ്മൾ രണ്ട് കാര്യങ്ങൾ തെളിയിക്കണം a ഒരു യൂണിറ്റല്ലഎ ക്കു ഒരു പ്രോപ്പർ ഡിവൈസർ ഇല്ല അതിനാൽ ഈ രണ്ട് വസ്തുതകൾ കാണിക്കുന്നതിന് കാരണം ഈ രണ്ട് ഭാഗങ്ങളും ഇറെഡ്യൂസിബിളിന്റെ നിർവചനം നൽകുന്നു a എന്നത് ഒരു യൂണിറ്റ് അല്ല കാരണം എ പ്രൈം ആണ് ഒരുപ്രൈം എലമെന്റ് യാന്ത്രികമായി ഒരു യൂണിറ്റല്ലെന്ന് ഓർമ്മിക്കുക അതിനാൽ അത് ഇതിനകം നൽകിയിട്ടുണ്ട് അതിനാൽ പ്രോപ്പർ ഡിവൈസർ ഇല്ലെന്ന് നമ്മൾ കാണിക്കണം അതിനാൽ എ ബിസിക്ക് തുല്യമാണെന്ന് കരുതുക നമുക്ക് അത്തരമൊരു കാര്യം ഉണ്ടെന്ന് കരുതുക അതിനർത്ഥം പ്രത്യേകിച്ചും b യും സി യും a യെ വിഭജിക്കുന്നു കാരണം b ടൈംസ് a ആണ് b ഡിവൈഡ്സ് a വീണ്ടും b ടൈംസ് a ആണ് അതിനാൽ c ഡിവൈഡ്സ് എ അതിനാൽ നമുക്ക് a യുടെ ഉപയോഗിക്കാം എ ഡിവൈഡ്സ് bc ആണെന്ന് നമുക്കറിയാം തീർച്ചയായും a bc യ്ക്ക് തുല്യമാണ് അതിനാൽഎ ഈക്വൽ റ്റു ബിസി എന്നാൽ എ ഡിവൈഡ്സ് ബിസിയെ സൂചിപ്പിക്കുന്നു ഒരു എലെമെൻറ്സ് സ്വയം വിഭജിക്കുന്നു കാരണം എ പ്രൈം ആണ് അതിനാൽ ഞാൻ ഇവിടെ എഴുതാം കാരണം a യുടെ പ്രൈമാലിറ്റി കാരണം എ ഡിവൈഡ്സ് b അല്ലെങ്കിൽ സി സംഭവിക്കുന്നു ഒരു പ്രൈം എലമെന്റിന് ഒരു പ്രൊഡക്ട് ബിസി യെ വിഭജിച്ചാൽ അത് ബി അല്ലെങ്കിൽ സി യെയും വിഭജിക്കുന്നു പക്ഷേ ഓർക്കുക ബി ഡിവൈഡ്സ് എ അല്ലെങ്കിൽ സി ഡിവൈഡ്സ് എ ആയിരിക്കും അതിനാൽ നമുക്ക് എ ഡിവൈഡ്സ് b യും ബി ഡിവൈഡ്സ് a യും ഉണ്ട് അതിനാൽ a b എന്നിവ അസോസിയേറ്റുകളാണ് അല്ലെങ്കിൽ എ ഡിവൈഡ്സ് സി ആണെങ്കിൽ c ഡിവൈഡ്സ് aയും ആകും ഇവ രണ്ടും സംഭവിക്കുന്നുവെന്ന് ഓർക്കുക അതിനാൽ ഇവിടെ എ ഡിവൈഡ്സ് ബി അല്ലെങ്കിൽ എ ഡിവൈഡ്സ് സി എന്നത് ഒരു പ്രശ്നമല്ല നമുക്ക് ഈ രണ്ട് പ്രസ്താവനകളും പ്രയോഗിക്കാൻ കഴിയും കാരണം ബി ഡിവൈഡ്സ് എ സി ഡിവൈഡ്സ് എ ഇത് രണ്ടും ശരിയാണ് അതിനാൽ a c എന്നിവ അസോസിയേറ്റുകളാണ് a b എന്നിവ അസോസിയേറ്റുകളും a c എന്നിവ അസോസിയേറ്റുകളുമാണ് ക്ഷമിക്കണം a b എന്നിവ അസോസിയേറ്റുകളാണ് അല്ലെങ്കിൽ a c എന്നിവ അസോസിയേറ്റുകളാണ് എന്നാൽ ഇതിനർത്ഥം b എന്നത് a യുടെ പ്രോപ്പർ ഡിവൈസർ അല്ല b c എന്നിവ പ്രോപ്പർ ഡിവൈസർ അല്ല വാസ്തവത്തിൽ അവർ രണ്ടുപേരും പ്രോപ്പർ ഡിവൈസർ അല്ലെന്ന് ഞാൻ പറയണം കാരണം പ്രോപ്പർ ഡിവൈസർ എന്നാൽ രണ്ട് പദങ്ങളും യൂണിറ്റുകളല്ലഅതുപോലെ അസോസിയേറ്റുകളല്ല അതിനാൽ ഇത് നിങ്ങൾക്ക് തീർച്ചയായും കഴിയില്ലഉദാഹരണത്തിന് a bc യ്ക്ക് തുല്യമാണെന്നും b c എന്നിവ അസോസിയേറ്റുകളാണെന്നും b ഉം a ഉം അസോസിയേറ്റുകളാണെന്നും കരുതുക ഇതിനർത്ഥം എ ബിസിക്ക് തുല്യമാണ് എന്നാണ് മറുവശത്ത് b ഡിവൈഡ്സ് എ ഡിവൈഡ്സ് b യും അതിനാൽ ഇത് ബി ആണ് ക്ഷമിക്കണം അതിനാൽ നിങ്ങൾക്ക് എ bc ക്ക് തുല്യമാണ്b ഡിവൈഡ്സ് a അതിനാൽ ഞാൻ എ ഡിവൈഡ്സ് ബി ആണെന്ന് കരുതുന്നു അതിനാൽ ഞാൻ എ ഡിവൈഡ്സ് b എന്ന് എഴുതണം അതിനാൽ എ ബി യെ വിഭജിച്ചാൽ എന്ത് സംഭവിക്കും എന്ന് ഞാൻ ചിന്തിക്കുകയാണ് അതായത് ax ബിക്ക് തുല്യമാണ് എ ഡിവൈഡ്സ് b എന്നാൽ ചില x വാല്യൂസിന് bഈക്വൽ റ്റു ax ആയിരിക്കും അതിനാൽ ax b യ്ക്ക് തുല്യമാണെങ്കിൽ എനിക്ക് ഇതിനെ axc എന്ന് എഴുതാം b ഈക്വൽ റ്റു ax അതിനാൽ ax സി അതായത് എ ഇന്റു 1 മൈനസ് x എന്നത് സിക്ക് തുല്യമാണ് എനിക്ക് രണ്ട് വശങ്ങളും കുറയ്ക്കാൻ കഴിയും ക്ഷമിക്കണം ഇത് ശരിയല്ല ഞാൻ എഴുതേണ്ടത് എ മൈനസ് axc 0 ആണ് അതായത് എ ഇന്റു 1 മൈനസ് എക്സ് സി 0 ആണ് കൂടാതെ ഞാൻ എ പൂജ്യം ആകില്ല എന്ന് കരുതുന്നു എ 0 ആണെങ്കിൽ ഇത് തീർച്ചയായും പ്രൈമും ഇറെഡ്യൂസിബിളും ആണ് ഇത് ഒരു കൺവെൻഷൻ മാത്രമാണ് പക്ഷേ എ 0 അല്ല ഇപ്പോൾ ഇവിടെയാണ് ഇന്റഗ്രൽ ഡൊമെയ്ന്റെ പ്രാധാന്യം ഈ വിഷയത്തിൽപ്രൈമും ഇറെഡ്യൂസിബിളും ആയ ഘടകങ്ങളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ നമ്മൾ ഒരു ഇന്റഗ്രൽ ഡൊമെയ്നിലാണെന്ന് അനുമാനിക്കുന്നു അതിനാൽ 1 മൈനസ് x 0 ആണ് ആണെങ്കിൽ എ നോൺസീറോ ആണ് അതിനാൽ 1 മൈനസ് x 0 ആണ് അതായത് സി ഒരു യൂണിറ്റാണ് കാരണം 1 ഈക്വൽ ടു xc ആണ് അതായത് സിക്ക് ഒരു മൾട്ടിപ്ലിക്കേറ്റിവ് ഇൻവേഴ്സ് ഉണ്ട് അതിനാൽ നിങ്ങൾക്ക് ഒരു ഫാക്ടറൈസേഷൻ ഉള്ളിടത്തോളം കാലം അവരിൽ ഒരാൾ യഥാർത്ഥത്തിൽ ഒരു അസോസിയേറ്റ് ആണെങ്കിൽ മറ്റൊന്ന് ഒരു യൂണിറ്റ് ആയിരിക്കണം അതിനാൽ ഇത് ശരിയായ ഫാക്ടറൈസേഷനല്ല കൂടാതെ എ ക്കു പ്രോപ്പർ ഡിവൈസറുകളില്ല അതിനാൽ എ ഇറെഡ്യൂസിബിൾ ആണ് ഇത് ഇതിനകം ഒരു യൂണിറ്റല്ല കാരണം അത് പ്രൈം ആണ് ഇതിന് പ്രോപ്പർ ഡിവൈസർ ഇല്ലെന്ന് നമ്മൾ ഇപ്പോൾ നിഗമനം ചെയ്തു അതിനാൽ ഇത് ഇറെഡ്യൂസിബിൾ ഘടകമാണ് അതിനാൽ നിങ്ങൾക്കായി പൊതുവായ ചിത്രം വീണ്ടും മനസിലാക്കാൻ പ്രൈം ഇറെഡ്യൂസിബിൾ ഘടകങ്ങളെക്കുറിച്ച് ഞാൻ പൊതുവായി എഴുതാം R ഒരു ഇന്റഗ്രൽ ഡൊമെയ്ൻ ആണ് ഇനിപ്പറയുന്നവ എല്ലായ്പ്പോഴും ശരിയാണ് പ്രൈം എന്നത് ഇറെഡ്യൂസിബിൾ എന്ന് സൂചിപ്പിക്കുന്നു നമ്മൾ ഇപ്പോൾ കാണിച്ചതുപോലെ ഇത് എല്ലായ്പ്പോഴും ശരിയാണ് ഇതിനെ നമുക്ക് തിരിച്ചും പറയാം ഇറെഡ്യൂസിബിൾ എന്നത് പ്രൈമിനെ സൂചിപ്പിക്കുന്നു ഇത് എല്ലായ്പ്പോഴും ശരിയല്ല ഇസഡ് അഡ്ജോയിന്റ് സ്ക്വയർ റൂട്ട് മൈനസ് 5 2 എന്നിവയുടെ ഉദാഹരണം ഓർക്കുക ഈ റിംഗിൽ 2 ഇറെഡ്യൂസിബിൾ ആണ് പക്ഷേ 2 പ്രൈം അല്ല അതിനാൽ ആർബിട്രറി ഇന്റഗ്രൽ ഡൊമെയ്നിലെ ഇറെഡ്യൂസിബിൾപ്രൈം എലെമെന്റ്സിന്റെ പൊതുവായ വിവരണമാണിത് അതിനാൽ ശേഷിക്കുന്ന വീഡിയോയിലും അടുത്ത വീഡിയോയിലും വിപരീത ആശയം ശരിയായി വരുന്ന റിങ്ങുകളെ പറ്റി പഠിക്കാൻ പോകുന്നു അതിനാൽ നമ്മൾ നിലവിൽ ചർച്ച ചെയ്യുന്ന വിഷയം പ്രിൻസിപ്പൽ ഐഡിയൽ ഡൊമെയ്നുകളുടെ ആശയവും യൂണിക് ഫാക്ടറൈസേഷൻ ഡൊമെയ്നുമാണ് അതിനാൽ പ്രിൻസിപ്പൽ ഐഡിയൽ ഡൊമെയ്നുകൾ തുടരുന്നതിനും നിർവചിക്കുന്നതിനും മുമ്പ് ഞാൻ നിങ്ങൾക്ക് ചില പൊതുവായ നിർവചനങ്ങൾ വേഗത്തിൽ നൽകട്ടെ പൊതുവായ നിർവചനങ്ങൾ ഇനിപ്പറയുന്നവയാണ് R ഒരു ഇന്റഗ്രൽ ഡൊമെയ്നായിരിക്കട്ടെ R ൽ a b എന്നീ രണ്ട് ഘടകങ്ങൾ തിരഞ്ഞെടുക്കാം നമുക്ക് രണ്ട് ഘടകങ്ങൾ തിരഞ്ഞെടുക്കാം ഏറ്റവും വലിയ കോമൺ ഡിവൈസറിനെക്കുറിച്ച് സംസാരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഇതിന്റെ ഹ്രസ്വ രൂപം ജിസിഡി ആണ് നിങ്ങൾക്കെല്ലാവർക്കും ഹൈസ്കൂളിൽ നിന്ന് ഇത് പരിചിതമാണ് നമുക്ക് ജിസിഡി എൽസിഎം തുടങ്ങിയവയെക്കുറിച്ച് അറിയാം അതിനാൽ നമുക്ക് പൂർണ്ണസംഖ്യകളിലുള്ള ജിസിഡി എന്ന ആശയത്തെ ആർബിട്രറി ഇന്റഗ്രൽ ഡൊമെയ്നിലേക്ക് കൊണ്ടുപോകാൻ ഞാൻ ആഗ്രഹിക്കുന്നു അപ്പോൾ എന്താണ് gcd നമുക്ക് അത് നിർവചിക്കാം എ ബി എന്നിവയുടെ ജിസിഡിയെക്കുറിച്ച് ഇപ്പോൾ സംസാരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു അതിനാൽ ഇനിയും വളരെയധികം ഉണ്ടാകാം ഞാൻ ഉദ്ദേശിക്കുന്നത് ഒന്നിൽ കൂടുതൽ ഉണ്ടായിരിക്കാം അതിനാൽ എല്ലായ്പ്പോഴും നമ്മൾ ഒരു ജിസിഡി എന്ന് പറയും കാരണം പൂർണ്ണസംഖ്യകളിൽ പോലും നിങ്ങൾ ഇപ്പോൾ നിർവചിക്കുന്ന നിർവചനം പാലിക്കുകയാണെങ്കിൽ അത് ഇങ്ങനെയാണ് 3 എന്നത് 2 അക്കങ്ങളുടെ gcd ആണെങ്കിൽ മൈനസ് 3 ഉം gcd ആണ് അതിനാൽ ab എന്നിവയുടെ ഒരു gcd നിർവചിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു a b എന്നത് d ഇൻ R ലെ ഒരു എലെമെൻറ് ആണ് അതിന് രണ്ട് ഗുണങ്ങളുണ്ട് അതിനാൽ ഒന്നാമതായി ഇൻറിജർ കേസിലെന്നപോലെ d a യെയും d ബി യെയും വിഭജിക്കുന്നു അതിനാൽഇത് ഒരു പൊതുവായ ഡിവൈസർ ആണ് അതിനാൽ ഇത് ഒരു കോമൺ ഡിവൈസർ ഭാഗമാണ് ഇത് a യെ വിഭജിക്കുകയും അത് b യെ വിഭജിക്കുകയും ചെയ്യുന്നു എന്നാൽ ഇത് gcd ആണ് അതിനാൽ ഒരു കോമൺ ഡിവൈസർ അകാൻ ഇത് പര്യാപ്തമല്ല ജിസിഡി എന്നാൽ എന്താണ് ഏറ്റവും വലിയ ഭാഗം നിങ്ങൾ എങ്ങനെ പറയുന്നു പൂർണ്ണസംഖ്യകളിൽ നമുക്ക് വലുതോ ചെറുതോ എന്ന ധാരണയുണ്ട് എന്നാൽ ഇന്റഗ്രൽ ഡൊമെയ്നിൽ നമുക്ക് ഒരു ക്രമവുമില്ലഒരു എലെമെൻന്റ് മറ്റൊരു എലെമെൻന്റിനേക്കാൾ വലുതാണെന്ന് പറയാൻ നമുക്ക് കഴിയില്ല എന്നാൽ ഇപ്പോൾ നമ്മൾ ഇനിപ്പറയുന്ന ആശയം ഉപയോഗിക്കാൻ പോകുന്നു ഇത് പൂർണ്ണസംഖ്യകളുടെ കാര്യത്തിലും ഉൾക്കൊള്ളുന്നു ഇ എ ബി എന്നിവയെ വിഭജിക്കുകയാണെങ്കിൽ മറ്റെന്തെങ്കിലും കോമൺ ഡിവൈസർ ഉണ്ടെങ്കിൽ അതിനാൽ d എന്നത് കോമൺ ഡിവൈസർ ആണ് കൂടാതെ മറ്റെന്തെങ്കിലും കോമൺ ഡിവൈസർ ഉണ്ടെങ്കിൽ ആ കോമൺ ഡിവൈസർ d ആണ് അതിനാൽ ഇതാണ് ഏറ്റവും വലിയ ഭാഗം ആദ്യം കോമൺ ഡിവൈസർ ഭാഗം രണ്ടാമത്തേത് ഏറ്റവും വലിയ ഭാഗമാണ് അതിനാൽ e ഡിവൈഡ്സ് a b സൂചിപ്പിക്കുന്നത് e ഒരു കോമൺ ഡിവൈസർ ആണ് എന്നാണ് തുടർന്ന് e ഡിവൈഡ്സ് d അതിനാൽ ഏറ്റവും വലിയ കോമൺ ഡിവൈസർ എന്നത് ഒരു കോമൺ ഡിവൈസർ ആണ് അതിനെ മറ്റെല്ലാ കോമൺ ഡിവൈസർ കൊണ്ടും ഹരിക്കാവുന്നതാണ് അതിനാൽ സ്റ്റാൻഡേർഡ് ഉദാഹരണങ്ങൾ ഓർമിക്കുക ഉദാഹരണത്തിനു നമ്മൾ 4 8 എന്നിവയുടെ gcd പരിശോധിക്കുന്നു അത് തീർച്ചയായും 4 ആണ് 4 6 എന്നിവയുടെ ജിസിഡി 2 ആണ് നമുക്ക് പറയാം 12 ന്റെ ജിസിഡി 3 ആയിരിക്കും എന്നത് 3 ആണ് 6 ന്റെയും 8 ന്റെയും ജിസിഡി 2 ആയിരിക്കും അതിനാൽ ഇതെല്ലാം നിങ്ങൾക്ക് പരിചിതമായ ഒന്നാണ് ഇവ രണ്ടിനെയും വിഭജിക്കുന്ന എല്ലാ സംഖ്യകളും നമ്മൾ നോക്കുന്നു പൂർണ്ണസംഖ്യകളുടെ കാര്യത്തിൽ നമ്മൾ ഏറ്റവും വലുത് എടുക്കുന്നു എന്നാൽ ആർബിട്രറി റിങ്ങുകളിൽ ഏറ്റവും വലുതോ ചെറുതോ ആയ ഘടകങ്ങൾ ഇല്ലാത്തതിനാൽ ഈ നിർവചനത്തിൽ നമ്മൾ ഉറച്ചുനിൽക്കാൻ പോകുന്നു അതായത് അവിടെ നമ്മൾ എല്ലാ കോമൺ ഡിവൈസർ കൊണ്ടും ഹരിക്കാൻ പറ്റുന്ന കോമൺ ഡിവൈസർ ആണ് എടുക്കുക അതിനാൽ gcd നിലവിലില്ലായിരിക്കാം എന്ന് ഞാൻ ഊന്നിപ്പറയാൻ ആഗ്രഹിക്കുന്നു അതിനു കാരണം ഇതാണ് നമ്മൾ മുമ്പ് ഉപയോഗിച്ച റിങ് പ്രൈം അല്ലാത്ത ഒരു ഇറെഡ്യൂസിബിൾ എലെമെന്റിന്റെ ഒരു ഉദാഹരണം നൽകിയ അതേ റിംഗ് നമുക്ക് എടുക്കാം നമുക്ക് എ 6 ഉം ബി 2 പ്ലസ് 2 ഇന്റു സ്ക്വയർ റൂട്ട് മൈനസ് 5 ആണെന്ന് കരുതുക ഇവയാണ് ഞാൻ എടുക്കുന്ന രണ്ട് ഘടകങ്ങൾ അതിനാൽ എ ഇതാണ് ബി ഇതാണ് അതിനാൽ ഇപ്പോൾ നമുക്ക് d 2 ഉം e 1 പ്ലസ് സ്ക്വയർ റൂട്ട് മൈനസ് 5 ഉം എടുക്കാം ഇവ രണ്ടും കോമൺ ഡിവൈസറുകൾ ആണ് അതിനാൽ രണ്ടും കോമൺ ഡിവൈസറുകൾ ആണെന്ന് ഒരാൾക്ക് കാണിക്കാൻ കഴിയും കാരണം 2 തീർച്ചയായും 6 നെ വിഭജിക്കുന്നു 2 ഇന്റു 3 6 ആണ് 2 ഇതിനെയും വിഭജിക്കുന്നു 2 ഇന്റു 1 പ്ലസ് സ്ക്വയർ റൂട്ട് മൈനസ് 5 ഉം 6 ആണ് അതിനാൽ ഇത് എളുപ്പമാണ് അതുപോലെ ഇ 6 നെ വിഭജിക്കുന്നു കാരണം 1 പ്ലസ് സ്ക്വയർ റൂട്ട് മൈനസ് 5 ഉം 1 ഇന്റു 1 മൈനസ് സ്ക്വയർ റൂട്ട് മൈനസ് 5 ഉം 6 ആണ് അതിനാൽ 1 പ്ലസ് സ്ക്വയർ റൂട്ട് മൈനസ് 5 ഡിവൈഡ്സ് 6 ഇത് തീർച്ചയായും ബിയെ വിഭജിക്കുന്നു കാരണം ഇത് 2 ഇന്റു ബി ഉണ്ട് മറുവശത്ത് നമുക്കറിയാം ഇതിന് അൽപ്പം ജോലി ആവശ്യമാണ് 2 1 പ്ലസ് നെ വിഭജിക്കുന്നില്ല വാസ്തവത്തിൽ ഇത് കാണിക്കാനല്ല കാരണം നിങ്ങൾ ഹരിച്ചാൽ ഇത് കിട്ടും 2 ഇന്റു 2 എന്ന് 2 ഇന്റു ഇത് ഈക്വൽ ടു 1 പ്ലസ് സ്ക്വയർ റൂട്ട് മൈനസ് 5 എന്ന് കിട്ടും കൂടാതെ ഈ വീഡിയോയിൽ നമ്മൾ മുമ്പ് ഉപയോഗിച്ച നിങ്ങളുടെ സ്റ്റാൻഡേർഡ് ആർഗ്യുമെന്റുകൾ ഒരു വൈരുദ്ധ്യം നേടാൻ ഉപയോഗിക്കുന്നു 2 ഇതിനെ വിഭജിക്കുന്നില്ല സമാനമായി ഇതും 2 നെ വിഭജിക്കുന്നില്ല അതിനാൽ നിങ്ങൾക്ക് ഈ രണ്ട് കാര്യങ്ങളുണ്ട് ഇത് യഥാർത്ഥത്തിൽ എളുപ്പമാണ് ഇത് അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമല്ല ഇതൊരു സ്റ്റാൻഡേർഡ് കണക്കുകൂട്ടലാണ് അതിനാൽ നിങ്ങൾക്ക് രണ്ട് കോമൺ ഡിവൈസർ ഉണ്ട് ഒന്ന് മറ്റൊന്നിനെ വിഭജിക്കുന്നില്ല അതിനാൽ ഇപ്പോൾ വാസ്തവത്തിൽ നിങ്ങൾക്ക് gcd ഇല്ലെന്ന് കാണിക്കാൻ കഴിയും കാരണം 2 ഇറെഡ്യൂസിബിൾ ആണ് അതിനാൽഇത് നിങ്ങൾ ചെയ്ത് നോക്കു ഇപ്പോൾ എ 6 ആണ് ബി എന്നാൽ 2 പ്ലസ്ഇതിനു gcd ഇല്ല എന്ന് തെളിയിക്കുക കാരണം ഡി ഇ എന്നിവ ഇറെഡ്യൂസിബിൾ ആണെന്ന് നിങ്ങൾക്ക് കാണിക്കാൻ കഴിയും അത് അങ്ങിനെയാണ് യഥാർത്ഥത്തിൽ b d ഇന്റു e ആണ് കാരണം b എന്നത് 2 പ്ലസ് 2 ഇന്റു സ്ക്വയർ റൂട്ട് മൈനസ് 5 അത് d ഇന്റു e ആണ് അതിനാൽ ഏതെങ്കിലും കോമൺ ഡിവൈസർ gcd ആയിരിക്കണം അതിനാൽ d അല്ലെങ്കിൽ e ആണ് ഞാൻ എഴുതണമെങ്കിൽ സാധ്യതയുള്ള gcd d അല്ലെങ്കിൽ e ആണ് കാരണം b ക്ക് ശരിക്കും 2 ഡിവൈസർ മാത്രമേ ഉള്ളൂ അതിനാൽ ഇത് ഒന്നുകിൽ d അല്ലെങ്കിൽ e ആണ് d എന്നത് e നെ ഹരിക്കില്ലെന്നും e d യെ വിഭജിക്കുന്നില്ലെന്നും നമ്മൾ കാണിച്ചു അതിനാൽ ഒരു കോമൺ ഡിവൈസർ ഉണ്ടാകരുത് കോമൺ ഡിവൈസർ ഉണ്ട് എന്നാൽ ഈ അർത്ഥത്തിൽ gcd ഉണ്ടാകാൻ കഴിയില്ല മറ്റെല്ലാ ഡിവൈസർ കൊണ്ട് ഹരിക്കാൻ കഴിയുന്ന ഒരു കോമൺ ഡിവൈസർ നമ്മുടെ പക്കലില്ല അതിനാൽ ഞാൻ ഈ വീഡിയോ ഇവിടെ നിർത്താൻ പോകുന്നു ഈ വീഡിയോയിൽ ഇറെഡ്യൂസിബിൾ പ്രൈം എന്നീ ഘടകങ്ങളുടെ സവിശേഷതകളുടെ കൂടുതൽ ഉദാഹരണങ്ങൾ നമ്മൾ പരിശോധിച്ചു ഇറെഡ്യൂസിബിൾ എന്നാൽ പ്രൈം എന്നല്ല അർത്ഥമാക്കുന്നത് എന്ന് കാണിക്കുന്നതിന് നമ്മൾ ഒരു ഉദാഹരണം നൽകിയിട്ടുണ്ട് എന്നാൽ പ്രൈം എല്ലായ്പ്പോഴും ഇറെഡ്യൂസിബിൾ ആണെന്ന് സൂചിപ്പിക്കുന്നു കൂടാതെ ആർബിട്രറി ഇന്റഗ്രൽ ഡൊമെയ്നിൽ ജിസിഡി എന്ന ആശയം നമ്മൾ നിർവചിക്കുകയും ചെയ്തു അടുത്ത വീഡിയോയിൽ നമ്മൾ പ്രിൻസിപൽ ഐഡിയൽ ഡൊമെയ്നുകളും യൂണീക് ഫാക്ടറൈസേഷൻ ഡൊമെയ്നുകളും പഠിക്കാൻ ആരംഭിക്കും